നമുക്ക് ഡയഗ്രം വീണ്ടും വരയ്ക്കാം അതിനാൽ ഇത് എന്റെ ഡെൽറ്റയിലുടനീളം പ്രയോഗിക്കുന്നു ഒരു ഡെൽറ്റ ഗ്യാപ്പ് എക്സൈറ്റേഷൻ ശരിയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു നമുക്ക് ഈ z നെ 0 ത്തിനു തുല്യമാണെന്ന് പറയാം കൂടാതെ രണ്ടാമത്തെ ആന്റിന എലമെന്റ് d അകലം മാറിയാണ് എന്നാൽ ഇത് പരസ്പരം സമാന്തരമാണ് ഈ കേന്ദ്രം ആണ് കൂടാതെ നീളം ജ്യാമിതി നീളം വ്യക്തമാണ് നീളം കറന്റ് ആണ് കറന്റ് ശരിയാണ് ഇപ്പോൾ ഇവിടെയുള്ള സിംഗിൾ ആന്റിന കേസിൽ ഞാൻ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ എന്റെ നിലവിലെ ഉറവിടം z അക്ഷത്തിൽ ആയിരുന്നു ഞാൻ നിരീക്ഷണ പോയിന്റ് എടുത്തത് ഈ റേഡിയസ് അകലെയാണ് അകലെ അതിനാലാണ് ഇത് ഇവിടെ ഇരട്ടിയായിരിക്കുന്നത് എന്ത് ഒഴിവാക്കാനാണ് നമ്മൾ ഇത് ചെയ്തത് ഗ്രീനിന്റെ ഫംഗ്ഷൻ സിംഗുലാരിറ്റി Green's function singularity ആന്റിനയുടെ ഉപരിതലത്തിൽ പോയിന്റുകൾ ഒരേ പോലെ ആയിരിക്കാൻ എനിക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു അത് സാധ്യമാണ് കൂടാതെ നമ്മൾ സിംഗുലാർ ഇന്റഗ്രലുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനാൽ ഇത് എന്നാൽ ഗണിതത്തെ ലളിതമാക്കാൻ നമ്മൾ സിംഗുലാരിറ്റി ഒഴിവാക്കാൻ ഇത് ചെയ്തു എന്നിരുന്നാലും ഇവിടെ ഒരു ചില സിമെട്രി കാണുന്നില്ല കാരണം രണ്ടാമത്തെ ആന്റിന ഒരു വശത്താണ് അതിനാൽ സത്യസന്ധതയോടെ ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ചില ദൂരം അകലെ ആ പോയിന്റ് പരിശോധിക്കാൻ എനിക്ക് കഴിയില്ല അതിനാൽ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇതരമാർഗ്ഗം എന്താണ് സോഴ്സ് പോയിന്റുകൾക്കും ടെസ്റ്റിംഗ് പോയിന്റുകൾക്കും ഞാൻ എന്ത് പരിഹാരമാണ് ചെയ്യുക ഓർക്കുക ഇവിടെ ഇത് എന്റെ ഉറവിടവും ഇതായിരുന്നു എന്റെ പരീക്ഷണ പോയിന്റും അതിനാൽ ഇവിടെ എനിക്ക് മറ്റ് വഴികളില്ല എനിക്ക് സിംഗുലാരിറ്റി കൊണ്ട് മുന്നോട്ട് പോകണം അതിനാൽ എങ്ങോട്ടാണോ കറന്റ് ഒഴുകുന്നത് ആ സ്ഥലത്തായിരിക്കും ഞാൻ ടെസ്റ്റിംഗ് നടത്തുന്നത് ഗ്രീനിന്റെ പ്രവർത്തനങ്ങളിലെ Green's functions സിംഗുലാരിറ്റി എനിക്ക് ലഭിക്കും ഞാൻ അത് കൈകാര്യം ചെയ്യും അതെ ഒരു പ്രശ്നമല്ല എന്നാൽ ഇപ്പോൾ നമുക്ക് ബൌണ്ടറി കണ്ടിഷനിൽ നിന്ന് ആരംഭിക്കാം അതാണ് നമ്മെ നയിക്കാൻ പോകുന്നത് അതിനാൽ ഞാൻ അത് പുനരാലേഖനം ചെയ്യട്ടെ ബൌണ്ടറി കണ്ടിഷൻ ഉദാഹരണത്തിന് സമവാക്യം 1 അല്ലേ അതിനാൽ സമവാക്യം 1 എനിക്ക് തരും ഇനി നമുക്ക് ഇതിന്റെ വൺ ടു വൺ മാപ്പിംഗ് നടത്താം ആദ്യത്തെ ടേം എന്തായിരിക്കും അതിനാൽ ഇതാണ് ഇടതുവശത്തേക്ക് വേണ്ടിയുള്ള നമ്മുടെ ചുരുക്കെഴുതിയ ചിഹ്നം അപ്പോൾ ഇന്റഗ്രലുകൾ എവിടെനിന്ന് എവിടെ വരെ രൂപം കൊള്ളുന്നു A യിലെ അതേ ആന്റിനയിൽ പ്രേരിത വൈദ്യുത പ്രവാഹം മൂലമുള്ള ഫീൽഡാണിത് അപ്പോൾ സംയോജനത്തിന്റെ പരിധികൾ എന്തായിരിക്കണം തുടങ്ങി വരെ ഇത് ഏത് കറന്റ് ആയിരിക്കും വിദ്യാർത്ഥി I A അതിനാൽ ഇവിടെ മുകളിലേക്കും താഴേക്കും പോകുന്ന കോർഡിനേറ്റ് ശരിയാണെന്ന് നമുക്ക് പറയാം ഇത് A നിർമ്മിക്കുന്ന ചിതറിക്കിടക്കുന്ന ഫീൽഡാണ് അടുത്തത് ആന്റിന B യിൽ പ്രചോദിതമായ കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫീൽഡ് അതിനാൽ സംയോജനത്തിന്റെ പരിധികൾ തുടങ്ങി വരെ പ്രശ്നം കൂടുതൽ വ്യക്തമാക്കുന്നതിന് ഞാൻ മറ്റ് ചില കോർഡിനേറ്റ് പറയും കാരണം ഇതൊരു ഡമ്മി വേരിയബിളാണ് പക്ഷേ നമുക്ക് ഇത് മറ്റൊരു ചിഹ്നമാക്കാം ഇതാണ് ആപേക്ഷിക കോർഡിനേറ്റ് ആണ് ഞാൻ അർത്ഥമാക്കുന്നത് ആപേക്ഷികം തുല്യമാണ് അതിനാൽ ഇത് നമ്മൾ അനുമാനിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഡെൽറ്റ വിടവ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും അത് എന്താണെന്നത് പ്രശ്നമല്ല അതാണ് എന്റെ ആദ്യ സമവാക്യം രണ്ടാമത്തെ സമവാക്യം രണ്ടാമത്തെ സമവാക്യമായി മാറുന്നു അത് ഏത് ബൌണ്ടറി കണ്ടിഷനിൽ നിന്നാണ് വരുന്നത് ഈ കക്ഷി ഒരേയൊരു വ്യത്യാസം അതിനാൽ ഇവിടെ 1 സെക്കൻഡ് അതിനാൽ ഞാൻ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കണം z ഏത് സ്ഥലത്തിന്റേതാണ് ഈ ബൌണ്ടറി കണ്ടിഷൻ ഏത് z ന് വിലമതിക്കുന്നു

ഇപ്പോൾ ഞാൻ എടുക്കണം അതിനാൽ B യിൽ വീഴുന്ന A യിലെ കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫീൽഡാണ് ആദ്യത്തെ ടേം അതിനാൽ ഇത് സംയോജനത്തിന്റെ പരിമിതികളായിരിക്കും തുടങ്ങി വരെ B യിൽ വീഴുന്നത് ശരിയാണ് അതിനാൽ എന്റെ z B ൽ ആയിരിക്കും എന്നാൽ ഏത് കറന്റ് ശരിയായി പ്രസരിക്കുന്നുവോ അതിന് മുകളിലൂടെ പോകേണ്ടതുണ്ട് അതിനാൽ ഇത് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇതാണ് നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട പ്രയോഗം അത് എന്താണ് പറയുന്നത് ഇടതുവശം ഒന്ന് ഇടതുവശത്തേക്ക് നോക്കുക ഇടത് വശം എന്താണ് പറയുന്നത് z ലെ ഏത് പോയിന്റിലും ഉള്ള ഫീൽഡ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയും ഞാൻ ഈ ഇന്റഗ്രൽ നടപ്പിലാക്കുകയാണെങ്കിൽ നിലവിലെ ഘടകത്തിന് മുകളിലൂടെ പോകുന്നു കൂടാതെ z അത് എവിടെയാണ് ഞാൻ അതിനെ ബൌണ്ടറിയിൽ പൊരുത്തപ്പെടുത്തുന്നു അതിനോട് തുല്യമാക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം കൂടാതെ ഓർക്കുക ഇത് എങ്ങനെ വന്നു കൺവോൾവിംഗ് വഴിയാണ് വന്നത് എനിക്ക് ലഭിച്ച കറന്റ് ൽ നിന്ന് എനിക്ക് ലഭിച്ചത് അതിനാൽ ഏത് പോയിന്റും z ആയ വൈദ്യുത മണ്ഡലത്തിന്റെ മൂല്യമാണിത് അത് പരിഹരിക്കാൻ ഞാൻ അതിനെ ബൌണ്ടറിയിൽ പൊരുത്തപ്പെടുത്തുന്നു അതിനാൽ സമാനമായി ചില സ്ഥലത്തു z ൽ നിലവിലുള്ള മൂലകം ഉൽപ്പാദിപ്പിക്കുന്ന ഫീൽഡ് ഇതാണ് ഇതുകൂടാതെ ഇതാണ് 0 ത്തിന് അല്ലെങ്കിൽ ഇൻസിഡന്റ് ഫീൽഡിന് തുല്യമാക്കുന്നത് വിദ്യാർത്ഥി സർ അവ രണ്ടും അറിയാത്തതാണ് രണ്ടും കൃത്യമായി ശരിയാണ് അതിനാൽ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്താണോ അതാണ് അത് അറിയാത്തതാണ് ഈ ഓപ്പറേറ്ററുമായുള്ള ഗ്രീനിന്റെ Green's പ്രവർത്തനം ശരിയാണോ അതിൽ പ്രവർത്തിക്കുന്നത് എന്റെ ഇത് സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് വിലയിരുത്താം അതിനാൽ നമ്മൾ ഏതാണ്ട് അവിടെ എത്തിയിരിക്കുന്നു അതിനാൽ ഞാൻ കുറച്ച് സബ്സ്ക്രിപ്റ്റുകൾ ഇവിടെ ഇടാം ഇത് വലതുവശത്താണ് അതായത് ഉറവിടവും ടെസ്റ്റിംഗ് പോയിന്റും ആയിരുന്നു ഇതിൽ എന്താണ് ഉറവിട സ്ഥാനം ഉറവിട സ്ഥാനമാണ് അതിൽ പതിക്കുന്ന രണ്ടാമത്തെ ഘടകം ഇവിടെ ഉറവിട പോയിന്റ് എന്താണ് A B യിൽ പതിക്കുന്നു ഇത് B Bയിൽ തന്നെ പതിക്കുന്നു ശരിയല്ലേ അതിനാൽ ആയിരുന്നു ചിഹ്നം ഉറവിടത്തിൽ നിന്ന് നിരീക്ഷണ പോയിന്റിലേക്ക് ഇതാണ് വ്യാഖ്യാനം അല്ലെങ്കിൽ എല്ലാം ഇതുപോലെ കാണപ്പെടും എന്നാൽ വാസ്തവത്തിൽ ഇതിൽ ലക്ഷ്യസ്ഥാനത്തുള്ള ഉറവിടവുമായി യോജിച്ചിരിക്കുന്നു അതിനാൽ ഉറവിടം എന്താണ് ലക്ഷ്യസ്ഥാനം എന്താണ് അത് വളരെ വ്യക്തമായി ശരിയാക്കണം അതിനാൽ യിൽ അല്ലെങ്കിൽ എനിക്ക് ഒരു ഗ്രീനിന്റെ ഫംഗ്ഷൻ Green's function ഉണ്ട് അതിൽ ഒരു ഉണ്ട് അപ്പോൾ ന്റെ മൂല്യം എന്തായിരിക്കും അല്ലെങ്കിൽ കാരണം സെൽഫ് ടേം ആണോ കൂടാതെ ൽ ആണോ അതോ ഇവിടെ എന്റെ R എന്താണ് എനിക്ക് തമ്മിലുള്ള ആപേക്ഷിക ദൂരം കണ്ടുപിടിക്കേണ്ടതുണ്ട് z ഇരട്ട പ്രൈം ഇവിടെനിന്ന് ഇവിടേക്ക് പോകുന്നു ഇത് ചില മൂല്യങ്ങളാൽ ഓഫ്സെറ്റ് ചെയ്യുന്നു അതിനാൽ ഇത് നിലവിലെ ഘടകം B യിലെ സമ്പൂർണ്ണ z കോർഡിനേറ്റാണ് നിലവിലെ ഘടകം A എന്തായാലും z അക്ഷത്തിൽ ഉണ്ടായിരുന്നു ഇത് z ആയിരുന്നു അതിനാൽ ഇതാണ് ദൂരം അതിനാൽ ഇത് സങ്കീർണ്ണമല്ലെന്ന് ഞാൻ അർത്ഥമാക്കുന്നു ഇതിന് ജ്യാമിതി വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെയുള്ള ഈ മുഴുവൻ കാര്യവും ഈ ആദ്യ ടേമിൽ ഒരു കപ്പിൾഡ് മാട്രിക്സ് സമവാക്യത്തിലേക്ക് ചുരുങ്ങും അതിനാൽ ഇവിടെ അജ്ഞാതമായത് എന്താണ് അതിനാൽ ഉദാഹരണത്തിന് ഈ സംഗതി മുഴുവനും ചിലർ പറയുന്നതുപോലെ എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഇതിനെ AB എന്ന് വിളിക്കാം BA യ്ക് ഒരു യുക്തി ഉണ്ടാക്കാൻ കഴിയും കാരണം ഉറവിടം മുതൽ നിരീക്ഷണം വരെ അപ്പോൾ നിങ്ങൾ എല്ലാ മാട്രിക്സും കണക്കാക്കിയാൽ ഇന്റഗ്രൽ തുല്യമാണ് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് MoM നടപടിക്രമം നടപ്പിലാക്കിയതിന് ശേഷമാണ് അപ്പോൾ ഈ സബ് മെട്രിസെസുകളുടെ വലുപ്പം എന്തായിരിക്കും അപ്പോൾ F എല്ലാം സബ് മെട്രിസെസുകളാണ് ഉദാഹരണത്തിന് ഇതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ വലുപ്പം എന്തായിരിക്കും വിദ്യാർത്ഥി N ക്രോസ് അതെ ഇത് ശരിയാകും അതുപോലെ തന്നെ ഇത് ശരിയാകും അപ്പോൾ ഈ മൊത്തത്തിലുള്ള മാട്രികസിന്റെ വലുപ്പം എന്താണ് വിദ്യാർത്ഥി N A കാരണം ഞാൻ A യെ ഘടകമായി വകതിരിച്ചു B യെ ഘടകമായി വകതിരിച്ചു അതിനാൽ എനിക്ക് വലിയ മാട്രിക്സ് ലഭിക്കുകയും ഞാൻ അത് പരിഹരിക്കുകയും ചെയ്തു അതെ ഇതെല്ലാം ചെയ്ത ശേഷം എന്റെ ലക്ഷ്യം എന്തായിരുന്നു ഞാൻ ഈ മഹത്തായ ഗണിതങ്ങളെല്ലാം ചെയ്തു എനിക്ക് കുറച്ച് പരിഹാരം ലഭിച്ചു ഞാൻ അത് പരിഹരിച്ചു ഇപ്പോൾ എന്താണ് ലഭിച്ചത് എന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു വിദ്യാർത്ഥി ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് ഞാൻ അത് എങ്ങനെ കണ്ടെത്തി അതിനാൽ മഹത്തായ ചോദ്യത്തിന് തുല്യമായ ഉദാഹരണം കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു വിദ്യാർത്ഥി സർ ഇതിൽ വലതുഭാഗം എന്താണ് ഈ കക്ഷിയുടെ വെക്റ്റർ രൂപത്തിൽ നിന്ന് വരുന്നതെന്താണോ അത് എല്ലാ ടെസ്റ്റിംഗ് പോയിന്റിലും ഇവിടെ വരുന്നു പിന്നെ ഏത് ഘട്ടത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ആന്റിനയുടെ കണക്ഷൻ ടെർമിനലുകളിൽ വിദ്യാർത്ഥി A A അതിനർത്ഥം ഈ അവസരത്തിൽ അപ്പോൾ വോൾട്ടേജ് A യെ എന്തുകൊണ്ട് ഹരിക്കുന്നു വിദ്യാർത്ഥി z ന്റെ I A 0 ത്തിന് തുല്യമാണ് അത്രയേയുള്ളൂ എന്തുകൊണ്ടാണ് ഇതെല്ലാം കാരണം മറ്റ് വസ്തുക്കളുടെ അഭാവത്തിലുള്ള കറന്റ് അല്ല എല്ലാ മ്യൂച്വൽ കപ്ലിംഗ് കണക്കിലെടുക്കുന്ന എല്ലാത്തിനും മറ്റൊരു പരിഹാരമാണ് വരുന്നത് അതിനാൽ ഞാൻ ആദ്യം കണ്ടെത്തേണ്ട പിന്നെ ഈ സർക്യൂട്ട് മോഡലിൽ നിന്ന് അൽപ്പം വ്യത്യസ്തമല്ല ഇവിടെയുള്ള വൈദ്യുതധാരകളുടെ അനുപാതം ഇൻപുട്ട് ടെർമിനലിലെ കറന്റ് കണ്ടെത്തുന്ന ഈ പ്രശ്നം ഞാൻ നേരിട്ട് പരിഹരിക്കുകയാണ് അത് എന്റെ ഡ്രൈവിംഗ് പോയിന്റ് ഇംപെഡൻസ് ആണ് അതിനാൽ B ഘടകം ഇല്ലാതെ പ്രശ്നം പരിഹരിച്ച് നിങ്ങൾക്ക് മ്യൂച്വൽ കപ്ലിംഗ് കണ്ടെത്താനാകും നിങ്ങൾക്ക് കുറച്ച് ഇംപെഡൻസ് ലഭിക്കും അതിനാൽ രണ്ട് ആന്റിന ഘടകങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഇത് പൂർത്തിയാക്കുന്നു ഇത് ഗവേഷണത്തിന്റെ ഒരു വലിയ മേഖല തുറക്കുന്നു ഞാൻ അത് വളരെ ചുരുക്കമായി ഇവിടെ പരാമർശിക്കുന്നു ഘടകം B നിലവിലെ ഘടകമാകുന്നതിനുപകരം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു മനുഷ്യശരീരം ഉണ്ടായിരിക്കാം നിങ്ങളുടെ ആന്റിനയുടെ ഇൻപുട്ട് ഇംപെഡൻസിൽ ഒരു മനുഷ്യശരീരത്തിന്റെ പങ്ക് എന്താണെന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇവിടെ ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ തലയുടെ അടുത്ത് പിടിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ തലയിൽ ചില വൈദ്യുതധാരകൾ പ്രേരിപ്പിക്കുകയും ഇൻപുട്ട് ഇംപെഡൻസ് മാറ്റുകയും ചെയ്യുന്നു അതിനാൽ ആന്റിനയ്ക്കുള്ളിലെ എല്ലാം അത് ഏത് ലക്ഷ്യ സ്ഥലത്തോട് അടുക്കുന്നു എന്നതിനെ ആശ്രയിച്ച് മാറും അതിനാൽ ആളുകൾ ഇത് ഒരു വൺ വയർ എലമെന്റ് പോലെ മാത്രമല്ല ഒരു സങ്കീർണ്ണമായ വസ്തുവാക്കി മാറ്റുക എന്താണ് അവിടെയുള്ള മ്യൂച്വൽ കപ്ലിംഗ് എന്ന് കണ്ടെത്തുക അതിനാൽ പൊതുവെ വൈദ്യുതകാന്തിക പ്രശ്നങ്ങൾ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് കാരണം ഈ പ്രേരിതമായ വൈദ്യുതധാരകൾ എല്ലായിടത്തും ഒഴുകുന്നു ജ്യാമിതി സവിശേഷമല്ലാതെ വളരെ സാധാരണമായിരിക്കുമ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു കർശനമായ മാർഗമാണിത് ഈ നടപടിക്രമം ഒരു ആന്റിന നിരയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ഘടകങ്ങൾ N ലേക്ക് സാമാന്യവൽക്കരിക്കാൻ കഴിയും അതിനാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേയൊരു കാര്യം ഗ്രീൻ ഫംഗ്ഷൻ ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ ഏകത്വത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് കാരണം ഞാൻ ഉറവിടവും ടെസ്റ്റിംഗ് പോയിന്റുകളും ഒരേ അക്ഷത്തിൽ തന്നെ തിരഞ്ഞെടുക്കുന്നു വിദ്യാർത്ഥി സർ ഇത് 2D ഗ്രീനിന്റെ പ്രവർത്തനമാണോ Green's function ഇതുപോലുള്ള 3D ഗ്രീനിന്റെ ഫംഗ്ഷൻ Green's function നമ്മളുടെ യഥാർത്ഥ പ്രശ്നം പോലെയാണ് ഇത് എന്തായിരുന്നു എന്റെ 3D ഗ്രീനിന്റെ പ്രവർത്തനം Green's function അറിയാം അതിനാൽ നിലവിലെ ഘടകം ഒരു ഏകമാനമാണ് പക്ഷേ കുറഞ്ഞത് രണ്ട് അതെ ഏകമാനം z അക്ഷത്തിൽ പരിമിതമായ നീളമുള്ള നീളം മാത്രമാണ് അതിന്റെ വളരെ നേർത്തതും ആരം ഉള്ളതുമാണ് എന്നാൽ അത് 3D സ്പെയ്സിൽ വികിരണം ചെയ്യുന്നു അതിനാലാണ് ഞാൻ 3D ഗ്രീനിന്റെ പ്രവർത്തനം Green's function ഉപയോഗിക്കുന്നത് കൂടാതെ z നിയന്ത്രിക്കുന്നതും വളരെ ചെറിയ ആരമുള്ളതുമായ വോളിയം ഇന്റഗ്രലിന്റെ ലളിതമായ അനുമാനങ്ങൾ ഒരു രേഖ ഏകമാന ഇന്റഗ്രൽ ആയി ചുരുക്കുന്നു അതിന്റെ ഒരു ഡൈമൻഷണൽ ഇന്റഗ്രൽ ആയതിനാൽ ഇതൊരു 1D പ്രശ്നമാണെന്ന് നിങ്ങൾ കരുതരുത് ത്രിമാന സ്ഥലത്ത് പ്രസരിക്കുന്ന ഒരു ഏകമാന ഘടകമാണിത് അതിനാൽ നിങ്ങളുടെ വയർ വളരെ നേർത്തതാണെങ്കിൽ ഇത് കൃത്യമാണ് വിദ്യാർത്ഥി x y അവയുടെ അതേ രീതിയിൽ തന്നെ അതെ അതുകൊണ്ടാണ് ഇവിടെ A സ്കോയർ വരുന്നത് അതെ ഞാൻ എഴുതിയത് ഇതിന് വേണ്ടിയായിരുന്നു വിദ്യാർത്ഥി ഇത് ഒരു z d ആണ് വിദ്യാർത്ഥി z ആണ് അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതിനാൽ ഇത് z എന്നതിന് പകരം ഇതായിരിക്കണം നിങ്ങൾ അതെ എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അതെ ആന്റിന എലമെന്റിന്റെ ആപേക്ഷിക ഫ്രെയിമിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ട് അതിനാൽ z ഉം ഒരേ നിലയിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളിടത്തോളം യഥാർത്ഥ വസ്തു പോലും മികച്ചതാണ് z അച്ചുതണ്ടിലെ വൈദ്യുതധാരയിലും അതേ അക്ഷത്തിലാണെങ്കിൽ ഏകത്വം ഉണ്ടായിരിക്കണം